സിംപിൾ ലീനിയർ റിഗ്രഷൻ മോഡലിംഗ് R ഉപയോഗിച്ച് സിംപിൾ ലീനിയർ റിഗ്രഷൻ നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള ലെക്ച്ചറിലേക്ക് സ്വാഗതം ഈ ലെക്ച്ചറിൽ R ൽ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നമ്മൾ കാണാൻ പോകുന്നു ഈ ലെക്ച്ചറിന്റെ ഭാഗമായി ഒരു ടെക്സ്റ്റ് ഫയലിൽ text file നിന്ന് ഡാറ്റ എങ്ങനെ ലോഡ് ചെയ്യാം ഡാറ്റ എങ്ങനെ പ്ലോട്ട് ചെയ്യാം ഒരു ലീനിയർ റിഗ്രഷൻ മോഡൽ എങ്ങനെ നിർമ്മിക്കാം മോഡലിന്റെ സമ്മറിം എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നിവയും നോക്കാൻ പോകുന്നു ഇപ്പോൾ ഡാറ്റ എങ്ങനെ ലോഡ് ചെയ്യാമെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിൽ ഡാറ്റാ സെറ്റ് ബോണ്ടുകൾ നൽകിയിട്ടുണ്ട് ഫയലിന്റെ വിപുലീകരണം ഡോട്ട് "txt" ആണ് ഫയലിൽ നിന്ന് ഡാറ്റ ലോഡ് ചെയ്യാൻ നമ്മൾ റീഡ് ഡോട്ട് ഡെലിം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു റീഡ് ഡോട്ട് ഡെലിം ഒരു ടേബിൾ ഫോർമാറ്റിൽ ഒരു ഫയൽ വായിക്കുകയും അതിൽ നിന്ന് ഒരു ഡാറ്റ ഫ്രെയിം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഫംഗ്ഷനിലേക്കുള്ള ഇൻപുട്ട് ആർഗ്യുമെന്റുകൾ ഫയൽ റോ ഡോട്ട് നാമങ്ങളാണ് ഫയൽ എന്നത് നിങ്ങൾ ഡാറ്റ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഫയലിന്റെ പേരാണ് കൂടാതെ റോ ഡോട്ട് നാമങ്ങൾ പ്രധാനമായും റോ ഐഡികളാണ് ഇത് പേരുകളുടെ വെക്ടറോ കോളത്തിന്റെ പേരിന് അനുയോജ്യമായ ഒരു സംഖ്യയോ ആകാം ഇപ്പോൾ ഡാറ്റ നിങ്ങളുടെ നിലവിലെ വർക്കിംഗ് ഡയറക്ടറിയിലാണെന്ന് കരുതുക കമാൻഡ് റീഡ് ഡോട്ട് ഡെലിം ആയി വായിക്കുന്നു അതിനാൽ ഉദ്ധരണികൾക്കുള്ളിൽ എനിക്ക് ബോണ്ടുകൾ ഡോട്ട് txt ഉണ്ട് ഞാൻ വരി ഡോട്ട് നാമങ്ങൾ 1 നൽകുന്നു ഇപ്പോൾ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്താൽ ബോണ്ടുകളുടെ ഒരു ഒബ്ജക്റ്റ് സൃഷ്ടിക്കപ്പെടുന്നു അത് ഒരു ഡാറ്റ ഫ്രെയിം ആണ് ഇനി ഡാറ്റ എങ്ങനെ കാണാമെന്ന് നോക്കാം ബോണ്ടുകളുടെ കാഴ്ച ഡാറ്റ ഒരു ടേബിൾ ഫോർമാറ്റിൽ പ്രദർശിപ്പിക്കും ചുവടെയുള്ള സ്നിപ്പറ്റ് ടേബിൾ കാണിക്കുന്നു ഏത് ഡാറ്റാ സെറ്റിന്റെയും ആദ്യ കുറച്ച് വരികൾ നമുക്ക് കാണാനും കഴിയും ഹെഡ് ടെയിൽ ഫംഗ്ഷനുകൾ അത് ചെയ്യാൻ നമ്മളെ സഹായിക്കും ഇപ്പോൾ ബോണ്ടുകളുടെ ഹെഡ് ഡാറ്റയിൽ നിന്നുള്ള ആദ്യത്തെ 6 വരികൾ നൽകും കൂടാതെ ബോണ്ടുകളുടെ ടെയിൽ നമുക്ക് ഡാറ്റയിൽ നിന്നുള്ള അവസാന 6 വരികൾ നൽകും നമുക്ക് ഡാറ്റാസെറ്റിന്റെ വിവരണം നോക്കാം ഇപ്പോൾ ഡാറ്റയ്ക്ക് 2 വേരിയബിളുകൾ കൂപ്പൺ റേറ്റും ബിഡ് പ്രൈസും ഉണ്ട് ഇപ്പോൾ കൂപ്പൺ റേറ്റ് എന്നത് ഇഷ്യൂവർ കടം കൊടുക്കുന്നയാൾക്ക് നൽകുന്ന സ്ഥിര പലിശ റേറ്റിനെ സൂചിപ്പിക്കുന്നു ബോണ്ടിനായി ആരെങ്കിലും നൽകാൻ തയ്യാറായ വിലയാണ് ബിഡ് പ്രൈസ് ഇപ്പോൾ ഡാറ്റ എങ്ങനെ ലോഡ് ചെയ്യാമെന്നും ഡാറ്റ എങ്ങനെ കാണാമെന്നും നമ്മൾ കണ്ടു ഡാറ്റയുടെ ഘടന എന്താണെന്ന് ഇപ്പോൾ നോക്കാം ഘടനയാൽ ഞാൻ അർത്ഥമാക്കുന്നത് ഓരോ വേരിയബിളും ഡാറ്റ തരവുമാണ് നമ്മൾ str എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു ഫംഗ്ഷനിലേക്കുള്ള ഇൻപുട്ട് ഒരു ഡാറ്റഫ്രെയിമാണ് വേരിയബിൾ ഡാറ്റ തരം നമ്മൾ പ്രതീക്ഷിച്ചതിന് സമാനമാണോ എന്ന് ഇപ്പോൾ നമുക്ക് കൃത്യമായി കാണാൻ താൽപ്പര്യമുണ്ട് ഇല്ലെങ്കിൽ അവയെ ബന്ധപ്പെട്ട ഡാറ്റ തരങ്ങളിലേക്ക് നിർബന്ധിക്കേണ്ടതുണ്ട് അതിനാൽ ഇപ്പോൾ ഇത് ഒരു മണി മുഴങ്ങണം കാരണം നമ്മൾ ഫംഗ്ഷനെ ഡോട്ടായി ഡാറ്റാ തരത്തിന്റെ പേരിനൊപ്പം പഠിച്ചു കൂടാതെ വേരിയബിൾ ആവശ്യമുള്ള തരത്തിലല്ലെങ്കിൽ അതിനെ നിർബന്ധിക്കാൻ നമ്മൾ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കും ഇപ്പോൾ ഈ ഡാറ്റാസെറ്റിനായി ഫംഗ്ഷൻ റൺ ചെയ്യുന്നു str എന്നു ഞാൻ പറയുന്നു ബോണ്ടുകൾ എന്റെ ഡാറ്റ ഫ്രെയിമിന്റെ പേരാണ് അതിനാൽ ഔട്ട്പുട്ട് ഡാറ്റ ഫ്രെയിം ബോണ്ടുകളായി വായിക്കുന്നു അതിന് 2 വേരിയബിളുകളുടെ 35 നിരീക്ഷണങ്ങളുള്ള തരം ഡാറ്റാ ഫ്രെയിമാണ് ആദ്യത്തെ കോളം കൂപ്പൺ റേറ്റ് ആണ് അത് സംഖ്യാ തരത്തിലുള്ളതാണ് കൂടാതെ എനിക്ക് ആദ്യത്തെ കുറച്ച് മൂല്യങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു അടുത്ത കോളം ബിഡ് പ്രൈസും സംഖ്യാ തരത്തിലുള്ളതാണ് അതേ കോളത്തിന്റെ ആദ്യ കുറച്ച് മൂല്യങ്ങൾ പ്രദർശിപ്പിക്കുന്നു ഇനി നമുക്ക് ഡാറ്റയുടെ സമ്മറി നോക്കാം ഈ കേസിൽ ബോണ്ടുകളിലെ ഡാറ്റ ഫ്രെയിമിന്റെ പേരിനൊപ്പം സമ്മറി ഫംഗ്ഷൻ നമ്മൾക്ക് 5 സംഖ്യകളുടെ സമ്മറിയും ഡാറ്റയിൽ നിന്നുള്ള അർത്ഥവും നൽകും ഇപ്പോൾ കൂപ്പൺ റേറ്റായ ആദ്യ കോളം എനിക്ക് 5 സംഖ്യകളുടെ സമ്മറിയും ശരാശരിയും ഉണ്ട് കൂടാതെ എനിക്ക് 5 സംഖ്യകളുടെ സമ്മറിയും രണ്ടാമത്തെ നിരയുടെ ശരാശരിയും ഉണ്ട് അതിനാൽ ഡാറ്റ എങ്ങനെ ലോഡ് ചെയ്യാമെന്നും ഡാറ്റ എങ്ങനെ കാണാമെന്നും നമ്മൾ ഇതുവരെ കണ്ടു ഘടനയും സമ്മറിയും നമ്മൾ പരിശോധിച്ചു ഇപ്പോൾ ഡാറ്റ ദൃശ്യവൽക്കരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഡാറ്റ ദൃശ്യവൽക്കരിക്കാൻ ഞാൻ പ്ലോട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു r വിഭാഗത്തിലെ വിഷ്വലൈസേഷനിൽ നമ്മൾ നേരത്തെ പ്ലോട്ട് ഫംഗ്ഷൻ കവർ ചെയ്തു ഇപ്പോൾ പ്ലോട്ട് ഫംഗ്ഷനിലേക്കുള്ള ഇൻപുട്ട് അടിസ്ഥാനപരമായി x ഉം y ഉം ആണ് ഈ സാഹചര്യത്തിൽ x എന്റെ കൂപ്പൺ റേറ്റിനെയും y എന്റെ ബിഡ് പ്രൈസിനെയും സൂചിപ്പിക്കുന്നു അതിനാൽ വേരിയബിളുകൾ ആക്സസ് ചെയ്യുന്നതിന് എനിക്ക് ഡാറ്റ ഫ്രെയിമിന്റെ പേര് നൽകേണ്ടതുണ്ട് തുടർന്ന് ഒരു ഡോളർ ചിഹ്നം അതിനാൽ ബോണ്ട് ഡാറ്റയിൽ നിന്നുള്ള ആക്സസ് കൂപ്പൺ നിരക്കും ബോണ്ട് ഡാറ്റയിൽ നിന്നുള്ള ആക്സസ് ബിഡ് പ്രൈസും ഞാൻ പറയുന്നു എന്റെ പ്ലോട്ടിന് ഒരു ടൈറ്റിൽ നൽകാം അതിനാൽ പ്രധാന പാരാമീറ്ററിനുള്ളിൽ നിങ്ങളുടെ പ്ലോട്ടിന്റെ ടൈറ്റിൽ വ്യക്തമാക്കാൻ കഴിയും xlab ഒന്നുമല്ല x ലേബലാണ് അതിനാൽ ഞാൻ ഇത് x "കൂപ്പൺ റേറ്റ്" എന്നും y ലേബൽ "ബിഡ് പ്രൈസ്" എന്നും അസൈൻ ചെയ്യുന്നു അതിനാൽ പ്ലോട്ട് വലതുവശത്താണ് ടൈറ്റിൽ ബിഡ് പ്രൈസും കൂപ്പൺ നിരക്കും y അക്ഷത്തിൽ നമ്മൾ അത് എങ്ങനെയാണ് അസൈൻ ചെയ്തത് എനിക്ക് ബിഡ് പ്രൈസ് ഉണ്ട് ഞാൻ അതിനെ ബിഡ് പ്രൈസ് എന്നും x അക്ഷത്തിൽ എനിക്ക് കൂപ്പൺ റേറ്റ്എന്നും ഞാൻ അതിനെ കൂപ്പൺ റേറ്റ്എന്നും ലേബൽ ചെയ്തു ഇപ്പോൾ നമ്മൾ ഒരു രേഖീയ പ്രവണത കാണുന്നു ഇപ്പോൾ കൂപ്പൺ നിരക്കിന്റെ പരിധിക്ക് പുറത്തുള്ള ചില പോയിന്റുകൾ ഉണ്ട് ഈ പോയിന്റുകൾ തിരിച്ചറിയാൻ നമ്മുടെ ലീനിയർ മോഡൽ നമ്മെ സഹായിക്കുമോ എന്ന് നോക്കാം ആരംഭിക്കുന്നതിന് നമുക്ക് ഒരു ലീനിയർ റിഗ്രഷൻ മോഡൽ നിർമ്മിക്കാം lm എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് ഒരു ലീനിയർ മോഡൽ നിർമ്മിക്കുന്നത് ഫംഗ്ഷന്റെ ഇൻപുട്ടുകൾ ഫോർമുലയും ഡാറ്റയുമാണ് ഫോർമുല കൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ ഡിപൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും റിഗ്രസ് ചെയ്യുന്നു എന്നാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഒരു ഫോർമുലയിലേക്ക് വിവർത്തനം ചെയ്യുന്നത് എനിക്ക് ഡിപെൻഡന്റ് വേരിയബിളുണ്ട് തുടർന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിളും ടില്ലറ്റ് ചിഹ്നവുമുണ്ട് അതിനാൽ റ്റിൽഡ്tilde ചിഹ്നം നമ്മോട് ഡിപൻഡന്റ് വേരിയബിളിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉപയോഗിച്ച് റിഗ്രസ് ചെയ്യാൻ പറയുന്നു ലീനിയർ മോഡൽ നിർമ്മിക്കാൻ 2 വഴികളുണ്ട് അത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ആദ്യ വഴി നമ്മോട് ഒരു ഫംഗ്ഷൻ ആയ ലീനിയർ മോഡൽ പറയുന്നു അതിനാൽ ഡോളർ ചിഹ്നത്തിന് ശേഷം ഡാറ്റ ഫ്രെയിം ഉപയോഗിച്ച് ബിഡ് പ്രൈസും കൂപ്പൺ നിരക്കും ആയ വ്യക്തിഗത വേരിയബിളുകൾ ഞാൻ ആക്സസ് ചെയ്യുന്നു അതിനാൽ ബോണ്ട് ഡാറ്റയിൽ നിന്ന് ബിഡ് വില എടുത്ത് ബോണ്ട് ഡാറ്റയിൽ നിന്ന് കൂപ്പൺ റേറ്റ്എടുത്ത് അവ പിൻവലിക്കുക മറ്റൊരു വഴി കൂടിയുണ്ട് വേരിയബിളുകൾ ആക്സസ് ചെയ്യാൻ ഡാറ്റ ഫ്രെയിമിന്റെ പേര് പരാമർശിക്കുന്നതിന് പകരം നമുക്ക് നേരിട്ട് വേരിയബിളിന്റെ പേര് പരാമർശിച്ച് ഡാറ്റ ബോണ്ടുകൾ നൽകാം ബോണ്ട് ഡാറ്റയിൽ നിന്ന് ഈ വേരിയബിളുകൾ ആക്സസ് ചെയ്യുക അതിനാൽ നമ്മുടെ സമവാക്യം ŷi β̂₀ β̂1xi εi എന്ന രൂപത്തിലാണെന്ന് കരുതുക εi എന്നത് റെസിജ്വലുകൾ എന്ന് വിളിക്കപ്പെടുന്ന എററുകൾ ആണ് β̂₀ ഇന്റർസെപ്റ്റും β̂1 സ്ലോപ്പും ആയതിനാൽ ഇനി മുതൽ ഈ എസ്റ്റിമേറ്റുകളെ ഇന്റർസെപ്റ്റ് സ്ലോപ്പ് എന്ന് വിളിക്കും അതിനാൽ ഇപ്പോൾ നമ്മൾ ഒരു ലീനിയർ മോഡൽ നിർമ്മിക്കുകയും അതിനെ ഒരു ഒബ്ജക്റ്റ് ബോണ്ട്സ് മോഡായി സംരക്ഷിക്കുകയും ചെയ്തതിനാൽ പ്ലോട്ടിന് മുകളിൽ റിഗ്രഷൻ ലൈൻ എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ ab ലൈൻ എന്ന് വിളിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കും ഫംഗ്ഷന്റെ ഇൻപുട്ട് ലീനിയർ മോഡലായ ബോണ്ട്സ്മോഡാണ് നമ്മൾ ഇതിനകം തിരികെ പോയി കൂപ്പൺ നിരക്കും ബിഡ് പ്രൈസും എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്ന് കണ്ടു ഇപ്പോൾ പ്ലോട്ടിന് പുറമേ നിങ്ങൾ ഈ കമാൻഡ് പരാമർശിക്കേണ്ടതുണ്ട് അതിനാൽ ഇവിടെ ab എന്നത് സ്ലോപ്പിനെയും ഇന്റർസെപ്റ്റിനെയും സൂചിപ്പിക്കുന്നു നിങ്ങളുടെ സമവാക്യം y a bx എന്ന രൂപത്തിലാണെങ്കിൽ a ഇന്റർസെപ്റ്റും b എന്നത് സ്ലോപ്പുമാണ് ഈ സാഹചര്യത്തിൽ a എന്നത് β̂₀ ഉം b എന്നത് β̂1 ഉം ആണ് പ്ലോട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം റിഗ്രഷൻ ലൈൻ എങ്ങനെ യോജിക്കുന്നുവെന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്ന പ്ലോട്ട് എന്റെ വലതുവശത്തുണ്ട് ഇത് വളരെ മോശമായി യോജിക്കുന്നു മാത്രമല്ല ഇത് പുറത്തുള്ളവയെ തിരിച്ചറിയുന്നില്ല അതിനാൽ റിഗ്രഷൻ ലൈനിനെ ഈ ഔട്ട്ലറുകൾ ബാധിക്കുന്നുവെന്ന് നമുക്ക് പറയാം അതിനാൽ നമുക്ക് ഇപ്പോൾ മോഡൽ സമ്മറി നോക്കാം അതിനാൽ എനിക്ക് റിഗ്രസ് ബിഡ് പ്രൈസും ഡാറ്റാ ബോണ്ടുകളിൽ നിന്നുള്ള കൂപ്പൺ നിരക്കും ഉണ്ട് നിങ്ങൾക്ക് മറ്റ് കമാൻഡും ഉപയോഗിക്കാം അതിനാൽ സമ്മറി ഒരു ഫംഗ്ഷനാണ് സമ്മറി ഫംഗ്ഷനിലേക്കുള്ള ഇൻപുട്ട് ഒരു ലീനിയർ മോഡലായി മാറുന്നു നമ്മൾക്ക് ലീനിയർ മോഡലായി ബോണ്ട്സ്മോഡ് ഉണ്ട് ഇത് സമ്മറിയുടെ ആദ്യ കാഴ്ചയാണ് അതിനാൽ നിങ്ങൾ കമാൻഡ് പ്രവർത്തിപ്പിക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് കോൾസോണിൽ ഇത് എങ്ങനെ കാണപ്പെടും നമ്മൾക്ക് ഔട്ട്പുട്ടിന്റെ 4 വിഭാഗങ്ങൾ ഉണ്ട് നമ്മൾക്ക് കോൾ ഉണ്ട് നമ്മൾക്ക് റെസിജ്വൽ ഉണ്ട് നമ്മൾക്ക് കോയിഫിഷ്യൻറുകളുണ്ട് കൂടാതെ നമ്മൾക്ക് കുറച്ച് ഹ്യൂറിസ്റ്റിക്സ് ചുവടെയുണ്ട് അതിനാൽ ഇപ്പോൾ നമുക്ക് ഇവ ഓരോന്നും ആഴത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം ഇപ്പോൾ കോൾ നമ്മൾ ഉപയോഗിച്ച ഫോർമുല പ്രദർശിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ ഞാൻ ബിഡ്പ്രൈസ് കൂപ്പൺ റേറ്റ് എന്നിവയ്ക്കെതിരായ ഫോർമുല ഉപയോഗിച്ചു അതിനാൽ ബിഡ്പ്രൈസ് റിഗ്രസ് ചെയ്യുക ഇത് കൂപ്പൺ നിരക്കും ഡാറ്റാ ബോണ്ടുകളിൽ നിന്നുമുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിളിനൊപ്പം എന്റെ ഡിപെൻഡന്റ് വേരിയബിളാണ് ഇപ്പോൾ നിങ്ങൾ ശരിയായ ഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ നൽകിയിട്ടുണ്ടോയെന്ന് പരിശോധിക്കാനുള്ള വഴിയാണിത് അടുത്ത ഭാഗം റെസിജ്വൽ ആണ് റെസിജ്വൽ എന്നാൽ നിരീക്ഷിച്ചതും പ്രവചിച്ചതുമായ മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് സമവാക്യത്തിൽ εi എന്ന ഒരു പരാമീറ്റർ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടു താഴെയുള്ള റെസിജ്വൽകളുമായി εi യോജിക്കുന്നു എന്നത് റെസിജ്വൽന്റെ 5 സംഖ്യകളുടെ സമ്മറിമാണ് അടുത്ത വിഭാഗം കോയിഫിഷ്യൻറുകളാണ് നമ്മൾ 2 വരികൾ കാണുന്നു അത് ഇന്റർസെപ്റ്റും കൂപ്പൺ റേറ്റും അവയുമായി ബന്ധപ്പെട്ട ചില മൂല്യങ്ങളും ഇപ്പോൾ ഈ ഇൻറർസെപ്റ്റും കൂപ്പൺ റേറ്റും ഒന്നുമല്ല പക്ഷേ β̂0 β̂1 നമ്മൾ നേരത്തെ നമ്മുടെ y β̂0 β̂1xi ε I β̂0 എന്ന സമവാക്യത്തിനായി β̂0 എന്നത് ഇന്റർസെപ്റ്റും β̂1 സ്ലോപ്പ് ആണെന്നും കണ്ടു ഇനി കോളത്തിലെ മറ്റ് 4 പാരാമീറ്ററുകൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം ഇപ്പോൾ എനിക്ക് എസ്റ്റിമേറ്റ് ആയ ആദ്യത്തെ കോളം ഉണ്ട് ഇത് ഒന്നുമല്ല ചരിവുകളുടെയും ഇന്റർസെപ്റ്റ് പാരാമീറ്ററിന്റെയും എസ്റ്റിമേറ്റ് അടുത്ത കോളം സ്റ്റാൻഡേർഡ് എറർ ആണ് സ്റ്റാൻഡേർഡ് എറർ എന്നത് സ്ലോപ്പും ഇന്റർസെപ്റ്റുമായി ബന്ധപ്പെട്ട് കണക്കാക്കിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് എനിക്ക് അടുത്ത കോളം t മൂല്യമായി ഉണ്ട് അപ്പോൾ t മൂല്യം എന്താണ് ഇത് സ്റ്റാൻഡേർഡ് എററും എസ്റ്റിമേറ്റും തമ്മിലുള്ള അനുപാതമാണ് കൂടാതെ ഇത് അനുമാന പരിശോധനയ്ക്കുള്ള ഒരു പ്രധാന മാനദണ്ഡവുമാണ് അതിനു ശേഷമുള്ള കോളമാണ് പ്രോബബിലിറ്റി ഇത് ഒരു t റാൻഡം വേരിയബിൾ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് ഇത് ഒബ്സർവ്ഡ് t സ്റ്റാറ്റിസ്റ്റിക്കിനേക്കാൾ വലുതായിരിക്കും അതിനാൽ അവസാനം കുറച്ച് സ്റ്റാറുകൾ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ എന്താണ് ഈ സ്റ്റാറുകൾ ഈ സ്റ്റാറുകൾ മുകളിലുള്ള സിഗ്നിഫിക്കൻസ് ലെവൽ നമ്മോട് പറയുന്നു അത് നൾ ഹൈപോതെസിസ് നിരസിക്കപ്പെടും അപ്പോൾ എന്താണ് നൾ ഹൈപോതെസിസ് നൾ ഹൈപോതെസിസ് എസ്റ്റിമേറ്റുകൾ 0 ആയിരിക്കും അവസാന വരിയിൽ എനിക്ക് ഒരു F സ്റ്റാറ്റിസ്റ്റിക്സും അതുമായി ബന്ധപ്പെട്ട ഒരു p വാല്യൂവും ഉണ്ട് ഇപ്പോൾ F സ്റ്റാറ്റിസ്റ്റിക്സു വീണ്ടും നൾ ഹൈപോതെസിസ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു അത് സ്ലോപ്പ് 0 ആണ് അതിനാൽ ഈ ലെക്ച്ചറിൽ ഒരു ഡാറ്റ എങ്ങനെ ലോഡ് ചെയ്യാം എങ്ങനെ പ്ലോട്ട് ചെയ്യാം എങ്ങനെ ദൃശ്യവൽക്കരിക്കാം ഒരു ലീനിയർ മോഡൽ എങ്ങനെ നിർമ്മിക്കാം ലീനിയർ മോഡലിൽ നിന്നുള്ള ഫലങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നിവ നമ്മൾ കണ്ടു അടുത്ത ലെക്ച്ചറിൽ നമ്മളുടെ മോഡലിനെ എങ്ങനെ വിലയിരുത്താമെന്നും മോഡൽ മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്നും നോക്കാം